അതിനാൽ ഒരു സിനോസോയ്ഡൽ വോൾട്ടേജിന്റെയോ വൈദ്യുതധാരയുടെയോ ശരാശരി RMS മൂല്യങ്ങൾ എന്താണെന്നു നമുക്ക് മനസിലാക്കാം നമുക്ക് ആദ്യം ശരാശരി മൂല്യത്തിലൂടെ പോകാം ഇത് വോൾട്ടേജാണ് ഈ തുടർച്ചയായ വരിയിൽ ഈ കട്ടിയുള്ള രേഖ കാരണം അടിസ്ഥാനപരമായി കറന്റ് ആണ് നിലവിലെ പ്ലോട്ട് പറയുന്നത് ഇത് വോൾട്ടേജാണ് ഇതിനുള്ള ഏറ്റവും ഉയർന്ന മൂല്യം rIm ആണ് ഇത് Im ആണ് ഈ വോൾട്ടേജുകളുടെ ഏറ്റവും ഉയർന്ന മൂല്യം Vm ആണ് ഇത് വോൾട്ടേജിന്റെ ഏറ്റവും ഉയർന്ന മൂല്യമാണ് ഇവിടെ ഇത് അടയാളപ്പെടുത്തിയിരിക്കുന്നു ഇത് ഒരു Vm ആണ് അതിനാൽ ഇത് തുടർച്ചയായ വരയാണ് r ഡാഷ് ലൈൻ വോൾട്ടേജുമാണ് ഇത് ഒരു സൈനസോയ്ഡൽ തരംഗരൂപമാണ് ഇവിടെ θ എന്നാൽ 𝟂t ക്ക് തുല്യമാണ് ഇവിടെ നമുക്ക് ഉള്ള എക്സ്പ്രെഷൻ Im sinθ ആണ് ഇത് 0 ആണ് ഒരു ഹാഫ് സൈക്കിളിൽ നമുക്ക് ആവറേജ് വാല്യൂ ലഭിക്കും അതിനാൽ Iavg 1𝝿 0 i d എന്നിങ്ങിനെ എഴുതാം ഇവിടെ നമ്മൾ ഈ ഹാഫ് സൈക്ലിളിനു വേണ്ടി മാത്രമേ ഇത് എഴുതുന്നുള്ളു അതിനാൽ പരിധി 0 π ആയി വിഭജിക്കണം ഈ സാഹചര്യത്തിൽ ഈ വശം അതിലേക്ക് വരും ഈ വശം RMS വാല്യൂ ആണ് കാണിക്കുന്നത് ഇത് അടിസ്ഥാനപരമായി Im sinθ ന് തുല്യമാണ് Iav 1𝝿0 Imsinθd എന്നായി തീരും ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 1𝝿 Im cosθ0 π ഈ സാഹചര്യത്തിൽ അടിസ്ഥാനപരമായി ലളിതവൽക്കരണത്തിന് ശേഷം 2 𝝿 Im 0 637 Im എന്ന് ലഭിക്കും ഇതിനെയാണ് rav എന്ന് വിളിക്കുന്നത് ഇത് 2 𝝿 Im 0 637 Im ന് തുല്യമാണ് ഇതേ പോലെ നമുക്ക് Vav ജും കണ്ടു പിടിക്കാം Vav 1𝝿0 Vm sinθdθ ആണ് ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 0 637 Vm എന്ന് ലഭിക്കും രണ്ടും സൈനസോയ്ഡൽ തരംഗരൂപം ആയതിനാൽ Vm നും അതെ ഉത്തരം തന്നെ ലഭിക്കും അതിനാൽ Vm V av 0 637 Vm ആയിരിക്കും വോൾട്ടേജിന്റെ ഏറ്റവും ഉയർന്ന മൂല്യമാണ് Vm അതുപോലെ Im എന്നത് കറന്റിന്റെ പരമാവധി മൂല്യമാണ് ഇത് rav മൂല്യമാണ് r RMS മൂല്യത്തിന്റെ കാര്യത്തിലേക്കു വരുമ്പോൾ ഈ സാഹചര്യത്തിൽ മാത്രം i2plot നൽകിയിരിക്കുന്നു ഇതാണ് Im ഇത് r ആണ് ഇത് പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ ഇത് ഇതുപോലെ ആയിരിക്കും ഈ പ്രദേശവും ഈ പ്രദേശവും ഒരുപോലെയാണ് ഇത് സമമിതിയാണ് ഇത് 2 π ആണ് ഈ വശം θ ആണ് അതിനാൽ i2 Im2sin2θ ന് തുല്യമാണ് ഞാൻ അത് വ്യക്തമാക്കാം ഇവിടെ Irms അതിന് തുല്യമാണ് കാരണം √ എടുക്കേണ്ടതുണ്ടെന്ന് നമുക്കറിയാം അതിനാൽ ഇത് 1π 0 i2 dθ അതിനാൽഇതാണ് പവർ ഹാഫ് സമവാക്യം RMS മൂല്യം 1π 0 എന്നത് ആവറേജ് വാല്യൂ ആണ് ഇതിന്റെ മൂല്യം i2dθ½ ആയിരിക്കും അതിനാൽ Irms 1π 0 Im2sin2θ12 ആണ് ഇതിനെ നമുക്ക് 1π 0 Im2 1 cos 2θdθ 12 എന്ന് എഴുതാം കാരണം sin2θ 1 cosθ 2 ആണ് ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്തു സിംപ്ലിഫൈ ചെയ്താൽ Im √2 0 707 Im എന്ന് ലഭിക്കും ഇതാണ് IRMS വാല്യൂ IRMS എന്നത് Im √2 ന് തുല്യമാണ് അതുപോലെ വോൾട്ടേജിനെ Vrms 0 707 Vm എന്നും എഴുതാം ഇവിടെയും r Im2sin2θ എന്നതിനുപകരം അതിനെ Vm2sin2θdθ ആക്കുക ആ സാഹചര്യത്തിൽ Vrms r 0 707 Vm ആയിരിക്കും അതിനാൽ ഒരു സിനോസോയ്ഡൽ കറന്റ് അല്ലെങ്കിൽ വോൾട്ടേജിന്റെ ശരാശരി മൂല്യം 0 637 പരമാവധി മൂല്യം ആയിരിക്കും സിനുസോയ്ഡൽ കറന്റ് അല്ലെങ്കിൽ വോൾട്ടേജിന്റെ ശരാശരി മൂല്യം 0 637 വർദ്ധിക്കുന്നു അതുപോലെ ഒരു സിനോസോയ്ഡൽ വൈദ്യുതധാരയുടെയും വോൾട്ടേജിന്റെയും rms മൂല്യം 0 707 പരമാവധി മൂല്യം ആയിരിക്കും ഇതാണ് പരമാവധി മൂല്യം ഇപ്പോൾ സൈൻ വേവിന്റെ 1 2 കാര്യങ്ങൾ അതായതു rms മൂല്യം ശരാശരി മൂല്യം എന്നിവ ഞങ്ങൾ നിർവ്വചിക്കുന്നു അതിനാൽ rms മൂല്യം 0 707 പരമാവധി മൂല്യവും ശരാശരി മൂല്യം 0 637 പരമാവധി മൂല്യവും ആയിരിക്കും സൈനസോയ്ഡൽ തരംഗരൂപത്തിന് ഫോം ഫാക്ടർ 1 11 ആണ് ഇത് ഒരു സൈൻ വേവ് പരമാവധി മൂല്യത്തിന്റെ RMS മൂല്യത്തിന്റെ ക്രെസ്റ്റ് ഘടകമാണ് അതിനാൽ പരമാവധി മൂല്യവും RMS പരമാവധി മൂല്യവും പരമാവധി മൂല്യമായി നിലനിർത്തുകയും RMS മൂല്യം 0 707 പരമാവധി മൂല്യത്തിന് തുല്യമാണ് അത് യഥാർത്ഥത്തിൽ 1 414 ആണ് ഇതിനെ പീക്ക് ഫാക്ടർ എന്ന് വിളിക്കുന്നു അതായത് ഏതൊരു AC വോൾട്ടേജിന്റെ കാര്യം എടുത്താലും ഇത് 12 മുതൽ 20 വോൾട്ട് ആണെങ്കിൽ അത് അടിസ്ഥാനപരമായി RMS മൂല്യം ആണ് ഇപ്പോൾ 224 AC എന്ന് പറയുകയാണെങ്കിൽ ഇത് RMS മൂല്യം ആണെന്ന് കരുതേണ്ടതുണ്ടെന്നും കരുതുക അതിനർത്ഥം അതിന്റെ പീക്ക് മൂല്യം √2 വർദ്ധിക്കും അതിനാൽ AC യിൽ നമ്മൾ ചെയ്യുന്നതെന്തും RMS മൂല്യത്തിലാണ് കണക്കാക്കുന്നത് എന്ന ആശയം അതാണ് എന്നാൽ അത് ഉയർന്ന മൂല്യം ചോദിക്കുകയാണെങ്കിൽ അത് √2 കൊണ്ട് ഗുണിക്കപ്പെടും അതിനാൽ RMS മൂല്യം എല്ലായ്പ്പോഴും ഈ RMS മൂല്യത്തേക്കാൾ കൂടുതലാണ് ഒരു റെക്ടങ്കുലർ വേവിനു ഒഴിച്ച് ഒരു ശരാശരി ശരാശരി മൂല്യത്തിന് എല്ലായ്പ്പോഴും ശരാശരിയേക്കാൾ കൂടുതലാണ് പ്രത്യേകിച്ചും r2wave ന് വ്യത്യസ്ത തരംഗ രൂപങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും ഈ സാഹചര്യത്തിൽ ഹീറ്റിംഗ് എഫ്ഫക്റ്റ് സ്ഥിരമായി തുടരും അതിനാൽ ശരാശരി RMS മൂല്യങ്ങൾ ഒന്നുതന്നെയാണ് ഒരു ചതുരാകൃതിയിലുള്ള തരംഗത്തിനു ഒഴികെ RMS മൂല്യം എല്ലായ്പ്പോഴും ശരാശരിയേക്കാൾ കൂടുതലാണ് എന്തായാലും ആ വിശദാംശങ്ങൾ നമുക്ക് ഇപ്പോൾ നോക്കാം ഈ ഫോം ഫാക്ടർ കേസ് ഫാക്ടർ ശരാശരി മൂല്യം RMS മൂല്യം എന്തും സംഖ്യയിൽ പരാമർശിക്കുന്നു കൂടാതെ അത് വ്യക്തമാക്കുന്നതുവരെ പരമാവധി മൂല്യം പരമാവധി മൂല്യം എന്ന് സൂചിപ്പിച്ചാൽ മാത്രമേ അത് ആർഎംഎസ് മൂല്യമാണ് ആ r RMS മൂല്യം ലഭിക്കാൻ iT √2 വിഭജിക്കണം അതിനാൽ ഇപ്പോൾ അടുത്തത് സമമിതിയും അസന്തുലിതവുമായ തരംഗ രൂപങ്ങളാണ് അതായതു തരംഗ രൂപങ്ങളിൽ ഹാഫ് സൈക്കിൾസ് സമാനമാണ് ഇത് സമമിതി തരംഗരൂപത്തെ സൂചിപ്പിക്കുന്നു ഇതുപോലുള്ള സൈനോസോയ്ഡൽ 1 r ഹാഫ് സൈക്കിൾസ് സമാനമാണ് ഇത് ഒരു ത്രികോണ തരംഗ രൂപമാണ് കാരണം ഈ വശവും ഈ വശവും ഒരേ രൂപമാണ് ഇത് ഇതാണ് 0 ഇതാണ് r T4 T2 T ഇത് π 2 ആണെങ്കിൽ ഇത് 3π 4 ആണ് അത് 2π ആണ് ഇവിടെ ഈ തരംഗം ഈ വശം സമമിതിയാണ് ഇതും സമമിതിയാണ് അതിനാൽ ഇത് ത്രികോണാകൃതിയിലുള്ള സമമിതി തരംഗമാണ് ഇത് 0 ആണെങ്കിൽ ഇത് സമമിതിയാണ് T2 ആണെങ്കിൽ T ഇത് സമമിതിയാണ് ഇത് r θ ഇത് θ ആണ് അതിനാൽ ഈ 3 തരംഗ രൂപങ്ങളും സമമിതി തരംഗ രൂപമാണ് അതായത് ഹാഫ് സൈക്കിൾസ് സമാനമാണ് അവയെ സമമിതി തരംഗം എന്ന് വിളിക്കുന്നു ഇതിനു അർഥം ഈ വശത്തെ പോസിറ്റീവ് ഏരിയ നെഗറ്റീവ് ഏരിയ രണ്ടും ഒന്നുതന്നെയായിരിക്കും അതുപോലെ മറ്റ് തരം തരംഗ രൂപങ്ങൾ ഉണ്ടായിരിക്കാം ഇത് ഇങ്ങനെ പോകുന്നുവെങ്കിൽ അത് ഇതുപോലെ പോകുന്നു ചില എക്സ്പോണൻഷ്യൽ വേവ്സും സമമിതിയാണ് അതുകൊണ്ടാണ് 1 ഡാഷ് ലൈൻ ഇവിടെ കാണിക്കുന്നത് മറ്റൊന്ന് ഇതാണ് ഇപ്പോൾ നമ്മൾ 0 മുതൽ ഹാഫ് സൈക്കിൾ വരെ കണ്ടെത്താൻ ആഗ്രഹിക്കുന്നുവെന്ന് കരുതുക അതിനായി നമുക്ക് ഇവിടെ രണ്ടിടത്തും ഓരോ ഐഡന്റിക്കൽ ലൈൻ വരച്ചാൽ മതി അപ്പോൾ നമുക്ക് ഇവ സിമെട്രിക്കൽ ആയി ലഭിക്കും ഇങ്ങിനെ ചെയ്യുമ്പോൾ ഹാഫ് സൈക്കിൾ ആവറേജ് വാല്യൂവിനു പകരം അതിനെ 0 മുതൽ T 4 വരെ ക്വാർട്ടർ സൈക്കിളാക്കും ഇവ രണ്ടും ഒരേ ഫലം ആണ് നൽകുന്നത് അതുപോലെ ഇവിടെയും ഇത് ഒരു ത്രികോണ തരംഗ രൂപമാണ് ഈ ത്രികോണ തരംഗ രൂപത്തിന്റെ ശരാശരി മൂല്യം എന്താണെന്ന് കണ്ടെത്താൻ ശ്രമിക്കുകയാണെങ്കിൽ ഇത് 0 മുതൽ π വരെയുള്ള ഒരു സമമിതി തരംഗമാണ് എന്തു ഫലം ലഭിച്ചാലും അതിനാൽ 0 മുതൽ π വരെ അല്ലെങ്കിൽ 0 വരെ T 2 വരെ ഇവിടെ ലഭിക്കും 0 മുതൽ r വരെ ഇത് എന്ത് വിളിക്കുന്നു r 0 toπ 2 അല്ലെങ്കിൽ 0 മുതൽ 24 വരെ ഈ വശത്തിന് ഈ സൈഡ് ഏരിയയും ഈ സൈഡ് ഏരിയയും ഒന്നുതന്നെയാണ് അതായത് ക്വാർട്ടർ സൈക്കിളിൽ എന്തും ശരാശരി മൂല്യം പകുതി സൈക്കിൾ എടുക്കും കൂടാതെ ഈ വശവും ഇടത് വശവും വലതു വശവും ഒരുപോലെയാണ് കാരണം ഇത് സമമിതിയാണ് അതിനാൽ തന്നെ ഒരേ ഫലം ലഭിക്കും ഹാഫ് സൈക്കിൾ പൂർത്തിയാക്കുന്നതിനു പകരം ഇത് വഴി വളരെ ലളിതമായ രീതിയിൽ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും അതിനാൽ ഞാൻ അത് വ്യക്തമാക്കാം അതുപോലെ നോക്കിയാൽ നോക്കുകയാണെങ്കിൽ ഇത് അസമമിതി തരംഗമാണ് ഇത് r വശമാണ് ഇത് 0 ഇത് മുമ്പത്തെപ്പോലെ തന്നെയാണ് ഇതാണ് π ഇത് 2π വേവ് ഫോം ഇത് വരെ ഉണ്ട് അതിനുശേഷം ഒന്നുമില്ല പിന്നെ ഇത് ഇങ്ങനെയാണ് അതിനാൽ ഈ ഡാഷ് ഭാഗം ഒന്നും ഇവിടെയില്ല ഇതിന്റെ കമ്പ്ലീറ്റ് സൈക്കിൾ 0 മുതൽ 2π വരെയാണ് പക്ഷേ അത് 0 മുതൽ π വരെ പോകുന്നു അതിനുശേഷം 0 വരെ ഒന്നുമില്ല എന്നാൽ കമ്പ്ലീറ്റ് സൈക്കിൾ 2π ആണ് സമമിതിയില്ലാത്ത തരംഗത്തിന്റെ രൂപമാണ് ആ മൊത്തം r എന്ന് വിളിക്കുന്നത് ഇവിടെ ബസ് ആയി ഹാൻഡ് സൈക്കിൾ ആണ് എടുക്കുന്നത് എടുത്തിരിക്കുന്നത് കമ്പ്ലീറ്റ് സൈക്കിൾ വേണമെങ്കിൽ നമ്മൾ കണക്കാക്കണം അതായത് അത് 0 ആണ് ഇത് π ഇത് 2π ആണ് അതിനാൽ ഈ ശരാശരി മൂല്യം അല്ലെങ്കിൽ RMS മൂല്യം ലഭിക്കുന്നതിന് ഈ ഏരിയ കണ്ടെത്തേണ്ടതുണ്ട് പക്ഷേ അതിനായി iT 2π വിഭജിക്കേണ്ടതുണ്ട് ഇതിനെ നമ്മൾ 0 മുതൽ π വരെ ഇന്റഗ്രേറ്റ് ചെയ്യും കാരണം ഈ ഡാഷ് ലൈൻ അവിടെ ഉണ്ടെന്ന് കാണിക്കുന്നു പക്ഷേ അത് അവിടെ ഇല്ല അസമമായ തരംഗ രൂപത്തിന് കമ്പ്ലീറ്റ് സൈക്ലിളിനെ ഫുൾ ഇന്റഗ്രേഷൻ കൊണ്ട് വിഭജിക്കപ്പെടണം 0 മുതൽ π വരെ നമുക്ക് ചില ഉദാഹരണം കാണാം ഈ ഉദാഹരണത്തിന്റെ കാര്യത്തിൽ ഇവിടെയും ഇവിടെയും ഇത് പോലെയാണ് ഇത് അസമമാണ് ഇത് ഈ വശത്തേക്കാൾ ഈ ഭാഗത്തുനിന്നുള്ള അസന്തുലിതമായ തരംഗമാണ് അതായതു ഇത് ഈ വശവുമായി പൊരുത്തപ്പെടുന്നില്ല ഇത് r0 ആണ് ഇത് rT ആണ് ഈ പോയിന്റുകൾ യഥാക്രമം r T4 T2 ഇത് 3 T4 ഇത് T എന്നിങ്ങിനെ ആണ് ഇത് ഒരു അസമമായ തരംഗ രൂപമാണ് ആ സാഹചര്യത്തിൽ r ആവറേജ് RMS മൂല്യം എന്നിവ നമുക്ക് കണ്ടെത്തണം അതായതു അതിനായി കമ്പ്ലീറ്റ് സൈക്കിൾ പരിഗണിക്കണം അതായതു അതിന്റെ ബേസ് 0 മുതൽ T വരെ ഉണ്ടായിരിക്കണം അസമമായ തരംഗ രൂപത്തിന്റെ കാര്യത്തിൽ ഡിവൈസർ T ആയിരിക്കും ഇവിടെ RMS വാല്യൂ അല്ലെങ്കിൽ ആവറേജ് വാല്യൂ മാറ്റി വെച്ച് കമ്പ്ലീറ്റ് സൈക്കിൾ പരിഗണിക്കുന്നു ഇതിനെ അസിമെട്രിക് വേവ് ഫോംസ് എന്ന് വിളിക്കുന്നു ഇവിടെ ശരാശരി മൂല്യം അല്ലെങ്കിൽ r RMS മൂല്യം ലഭിക്കാൻ ഒരു കമ്പ്ലീറ്റ് സൈക്കിൾ പരിഗണിക്കണം എന്നാൽ സിമെട്രിക് വേവ് ഫോംസിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഹാഫ് സൈക്കിൾ അല്ലെങ്കിൽ ക്വാർട്ടർ സൈക്കിൾ പരിഗണിക്കേണ്ടതുണ്ട് ഇത് സമാന ഫലങ്ങൾ നൽകും പക്ഷേ അസമമായ തരംഗ രൂപത്തിന് r പരിഗണിക്കേണ്ടതുണ്ട് അടുത്തത് അസമമായ തരംഗത്തിന്റെ അവസ്ഥയാണ് ശരാശരി മൂല്യം എല്ലായ്പ്പോഴും കമ്പ്ലീറ്റ് സൈക്കിളിൽ എടുക്കണം അതായതു Iavg 1T 0Tidt ആയിരിക്കണം അതുപോലെ വോൾട്ടേജ് Vavg കമ്പ്ലീറ്റ് സൈക്കിളിൽ നിന്നും നാം പരിഗണിക്കേണ്ടതുണ്ട് Vavg 1T 0Tvdt ആയിരിക്കണം കൂടാതെ സമമിതി ആൾട്ടർനേറ്റ് കറന്റ് അല്ലെങ്കിൽ വോൾട്ടേജിന്റെ കാര്യത്തിൽ ഒരു പൂർണ്ണ ചക്രത്തിന്റെ ശരാശരി മൂല്യം 0 ആണ് എന്നാൽ നാം ആവറേജ് വാല്യൂ സാധാരണ ഹാഫ് സൈക്കിളിൽ ആണ് കണക്കാക്കുന്നത് കാരണം ഇത് സമമിതി ആണെങ്കിൽ നെഗറ്റീവ് പോസിറ്റീവ് ഏരിയ തുല്യമായിരിക്കും ആ സാഹചര്യത്തിൽ ശരാശരി മൂല്യം 0 ആയിരിക്കും അതുകൊണ്ടാണ് ശരാശരി മൂല്യത്തിനായി ആ പകുതി ചക്രം ഞങ്ങൾ പരിഗണിക്കുക രണ്ടാമത്തെ കാര്യം ഒരു ആൾട്ടർനേറ്റിംഗ് ക്വാണ്ടിറ്റിയുടെ RMS മൂല്യം നിർണ്ണയിക്കുക എന്നതാണ് ശരാശരി പകുതി ചക്രം അല്ലെങ്കിൽ പൂർണ്ണ ചക്രം എടുക്കുന്നത് അഭികാമ്യമല്ല പറഞ്ഞു RMS മൂല്യം എന്നാൽ a2 എന്നാണ് അർഥം അതിനാൽ സ്ക്വയർ ചെയ്തയുടൻ ഹാഫ് സൈക്കിൾ അല്ലെങ്കിൽ ഫുൾ സൈക്കിൾ എടുക്കുകയാണെങ്കിൽ അത് ഒരേ ഫലം നൽകുമെന്ന് പറഞ്ഞു കാരണം ഹാഫ് സൈക്കിളിനും മറ്റൊരു ഹാഫ് സൈക്കിളിനുമുള്ള വിസ്തീർണ്ണം അതേപടി നിലനിൽക്കുന്നു പകുതി സൈക്കിൾ എടുക്കണം ഫുൾ സൈക്കിൾ ആണെങ്കിൽ അതേ റിസൾട്ട് ലഭിക്കും ഇപ്പോൾ അതിനാൽ ഒരു bc ക്ക് ഒരു ചെറിയ ഇടവേള പോലും പരിഗണിക്കാം അതാണ് T4 എന്ന് വിളിക്കുന്നത് ത്രികോണ തരംഗ രൂപത്തിനായുള്ള ഈ r പോയിന്റ് T4 നെക്കുറിച്ച് സമമിതി ആയതിനാൽ ത്രികോണാകൃതിയിലുള്ള തരംഗരൂപം ഞങ്ങൾ എങ്ങനെ ചെയ്യും എന്ന് നോക്കുക ഇത് r എന്ന് വിളിക്കണമെന്ന് കരുതുക ഇത് 0 ആണ് ഇത് T4 ഇത് T2 ഇത് 3 T4 ആണ് ഇത് T ആണ് ഈ മൊത്തം r നെ അടിസ്ഥാന ദൈർഘ്യം വിളിക്കുന്നു ഈ ഒരു T എടുത്താൽ ഇത് എന്റെ Vm rpeak ആണ് ഈ ഉയരം Vm ആണ് ഇവിടെ നേർരേഖയുടെ ചരിവ് Vm ആയിരിക്കും അതായതു ഉയരം Vm ഉം അടിസ്ഥാനം T4 ഉം ഇതാണ് ചരിവ് ഈ സമവാക്യം ഈ നേർരേഖയ്ക്ക് തുല്യമാണ് ഇത് ഒറിജിനിലൂടെ ആണ് കടന്നു പോകുന്നത് അതായത് നേർരേഖയ്ക്ക് പൊതുവായി അറിയാവുന്ന mx ന് തുല്യമാണ് എന്നാൽ y വശം v ആണ് അതിനാൽ ഇത് v ആകണം m T നും rm ഒന്നിനും തുല്യമാണ് എന്നാൽ ഇത് r ചരിവ് v ആണ് T4 ന് Vm ന് തുല്യമാണ് ഇവിടെ v m T4 T ആണ് കാരണം ഈ സമയം T എന്ന് പറയുന്നത് ഉത്ഭവത്തിലൂടെ കടന്നുപോകുന്ന നേർരേഖയാണ് ഈ സമയമാണ് ഞങ്ങൾ T എടുക്കുന്നതിനു പകരം θ എടുക്കും അതിനാൽ v എന്നത് Vm T4 T ന് തുല്യമാണ് അതിനർത്ഥം Vavg 1T4 0t4Vm T4 dt ഇതാണ് ഈ സമവാക്യം ഇത് ലളിതമാക്കുകയാണെങ്കിൽ അത് Vm 2 ആയിരിക്കും കാരണം ഇത് സമമിതി തരംഗരൂപമാണ് ഞങ്ങൾ ഇതിനെക്കുറിച്ച് മുമ്പ് സംസാരിച്ചു T4 ഇത് rT4 ആണ് ആ സാഹചര്യത്തിൽ സമമിതി തരംഗരൂപത്തിന് ഈ വശവും ഈ വശവും ഒന്നു തന്നെയാണ് ഈ സമവാക്യം v VmT4T നമുക്ക് ഇങ്ങിനെ ലഭിക്കും ഇത് T4 ആണ് ആവറേജ് വാല്യൂ ആണ് ഇതിനെ 0 മുതൽ T4 വരെ ഇന്റെഗ്രേറ്റ് ചെയ്യുകയാണെങ്കിൽ അത് r 2 Vm എന്ന് വിളിക്കും ഇത് Vm 2 ആയി മാറും അതുപോലെ ആ Vrms മൂല്യം 0 മുതൽ T4 വരെ r 1 ആയിരിക്കും അതിനാൽ V എന്നത് VmT4t 2it എന്നിവയ്ക്ക് തുല്യമാണ് 2t ആണെങ്കിൽ അത് Vm2T42 T2dt പവർ പകുതിയിലേക്കും 0 മുതൽ T4 വരെ സംയോജിപ്പിക്കും ഇത് ഉപയോഗിച്ച് നമുക്ക് സമാനമായ ഫോം ഫാക്ടർ കണ്ടെത്താനാകും ഇത് 2 √3 1 155 ആകും പരമാവധി ഘടകം 1 732 ആയിരിക്കും r ഫോം ഘടകം RMS മൂല്യം ശരാശരി മൂല്യം rപീക്ക് ഫാക്ടർ പരമാവധി മൂല്യം RMS മൂല്യത്തിന് തുല്യമാണ് അതിനാൽ ഈ ത്രികോണ തരംഗ രൂപത്തിന് അപ്പോൾ r പീക്ക് ഫാക്ടർ 2 √3 ലഭിക്കും ലളിതമാക്കുക 155 ഉം പീക്ക് ഫാക്ടർ √3 1 732 ഉം ലഭിക്കും ഇപ്പോൾ നമ്മൾ കാണുന്നത് ത്രികോണ തരംഗ രൂപമാണ് ഇപ്പോൾ എല്ലാ തരംഗ രൂപങ്ങളുടെയും ഫോം ഫാക്ടർ നോക്കുകയാണെങ്കിൽ ഇത് ഒരു r2 തരംഗത്തിനുള്ളതാണ് സൈനസോയ്ഡൽ തരംഗ രൂപത്തിന് ഇത് 1 ആയിരിക്കും ത്രികോണ തരംഗ രൂപത്തിന് ഇത് 1 11 ആയിരിക്കും കാല്കുലേറ്റു ചെയ്താൽ അത് 1 154 ആയിരിക്കും ഇപ്പോൾ ത്രികോണാകൃതിക്ക് ഞങ്ങൾ 1 155 കണക്കുകൂട്ടി അതിനാൽ ഇവിടെയും ഇത് 1 പോയിന്റ് ആണ് ഇത് യഥാർത്ഥത്തിൽ 1 155 ആണ് അതിനാൽ ചിത്രം a ചിത്രം b എന്നിവയ്ക്കുള്ള ചിത്രം c ആണ് ഇത് r2waveform നുള്ള ഫോം ഫാക്ടറിന് ഇത് 1 ആണ് ഇപ്പോൾ അനന്തമായ തരംഗരൂപത്തിന് ശേഷം ഈ കേസിനായി അസമമായ തരംഗരൂപത്തിന് ഇത് മുഴുവൻ ബേസ് 2π പരിഗണിക്കേണ്ടതുണ്ട് എന്നാൽ ഇതിനു r0 ആയിരിക്കണം അതിനാൽ ആവറേജ് വാല്യൂ 12π 0Im sinθ dθ ആയിരിക്കും ഇതിനെ നമുക്ക് 12π 0Im cosθ dθ എന്നെഴുതാം ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 1π Im എന്ന് ലഭിക്കുന്നു അടിസ്ഥാനപരമായി RMS മൂല്യത്തിന് 12π 0 Im2 sinθ dθ ഇത് ഇന്റഗ്രേറ്റ് ചെയ്താൽ 2 √2 എന്ന് ലഭിക്കും അതിനാൽ ഇതാണ് r RMS മൂല്യം ഇപ്പോൾ ഫോം ഫാക്ടർ അതേ രീതിയിൽ തന്നെ ലഭിക്കും അത് 1 11 ആയിരിക്കും ഹാഫ് സൈക്കിളിന്റെ കാര്യം വ്യത്യസ്തമാണെങ്കിലും സൈൻ വേവ്ഫോമിന് r ആണ് എനിക്ക് ഇപ്പോൾ ഈ ത്രികോണ തരംഗ രൂപത്തിന് 1 11 ലഭിക്കുന്നു ഇത് സമമിതിയില്ലാത്ത തരംഗരൂപമാണെന്ന് കരുതുക ഇതിന്റെ പീക്ക് വാല്യൂ 10 വോൾട്ടും T4 Tഉം ഈ വശവും 5 വോൾട്ട് ഇത് 10 വോൾട്ട് ആണെന്ന് കരുതുക അതിനർത്ഥം നേർരേഖയുടെ ചരിവ് ഈ 10 T4 ആയിരിക്കും മറ്റൊരു കാര്യം നമ്മൾ 0 മുതൽ t വരെയും 0 മുതൽ T വരെയുമാണ് നമുക്ക് ഉത്തരം ലഭിക്കേണ്ടത് അതിനാൽ ഈ സാഹചര്യത്തിൽ കമ്പ്ലീറ്റ് സൈക്കിൾ പരിഗണിക്കേണ്ടതുണ്ട് അതുകൊണ്ടാണ് V1T 0T vdt എടുത്തത് ഇത് ഒരു Vavg വാല്യൂ ആണ് അതിനാൽ ആദ്യം ഞങ്ങൾ ഈ ഏരിയ പരിഗണിക്കണം തുടർന്ന് ഈ ഏരിയ പരിഗണിക്കണം ഇത് ഒരു നേർരേഖയിലൂടെ കടന്നുപോകുന്ന സമവാക്യമാണ് അതിനാൽ ഈ സമവാക്യം ആയിരിക്കും ഈ നേർരേഖയ്ക്കുള്ള ഈ സമവാക്യം ഈ ചരിവ് 10 T 4 t ആണ് അതിനാൽ ഈ ഭാഗത്തിന് ഇത് 1 T 0T410T4 tdt ആണ് ഇപ്പോൾ ഞാൻ അത് വ്യക്തമാക്കട്ടെ ഇപ്പോൾ ഈ ഭാഗം കണ്ടുപിടിക്കാൻ ശ്രമിച്ചാൽ ഈ സമവാക്യത്തിന്റെ ഒരു നേർരേഖ അതിനെ y ആക്കേണ്ടത് m x c ആണ് ഈ വഴി അത് അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ ഉണ്ടാക്കണം അത് ഉണ്ടാക്കണം V എന്നത് r ചരിവിന് തുല്യമാണ് m t C ഈ രീതിയിൽ സമവാക്യം ലഭിക്കേണ്ടതുണ്ട് എന്നാൽ സമമിതിയിൽ നിന്ന് എങ്ങനെ കണ്ടെത്താനാകുമെന്ന് നമുക്ക് നോക്കാം ഗണിതശാസ്ത്ര കണക്കുകൂട്ടലിന് മാത്രമാണ് ഇവയുപയോഗിക്കുന്നതു മറ്റൊന്നുമല്ല ഇത് കൊണ്ടുവന്നാൽ മറ്റൊരു നേർരേഖ ഉത്ഭവത്തിലൂടെ കടന്നുപോകുന്നത് പോലെ ആ ഏരിയ അതേപടി നിലനിൽക്കുമെന്നും കരുതുക അതിനാൽ ഈ ചരിവ് ഇതായിരിക്കും 5T4 കാരണം y mt C ന് തുല്യമാണ് ഇവിടെ നമുക്ക് ഉം യും കണ്ടു പിടിക്കേണ്ടതുണ്ട് കാരണം ഇത് ഒരു കോർഡിനേറ്റ് ആണ് ഇത് മറ്റൊന്നാണ് m c എന്നിവ പരിഹരിക്കുകയും വേണം സമമിതിയിൽ നിന്ന് ഈ ഭാഗം ഇവിടെ കൊണ്ടുവരിക അത് ഒറിജിനിലൂടെ കടന്നുപോകുന്നത് പോലെയാണ് ആ സാഹചര്യത്തിൽ ചരിവ് 5 T4 ആയിരിക്കും ഇവിടെ ഇന്റഗ്രേഷനും 0 മുതൽ T4 വരെ ആയിരിക്കും ഈ കാലാവധിയും 3 T4 T2 വീണ്ടും T4 ആയിരിക്കും ഇവിടെ ഈ കാലയളവ് r 3 T4 T2 വീണ്ടും T4 ആയിരിക്കും അതായത് ഒരേ ഇന്റഗ്രേഷൻ 0 മുതൽ T4 വരെ ഞങ്ങൾ ഈ ഭാഗം എടുക്കുന്നു അതായത് ഈ ഭാഗം 5 T4 tdt ഇത് ഉത്ഭവത്തിലൂടെ കടന്നുപോകുന്ന നേർരേഖയായതിനാൽ ഇത് ഒരു ചരിവാണ് 5 T4 tdt ഈ മേഖലയും നെഗറ്റീവ് ചിഹ്നവും മാത്രമാണ് നമ്മൾ കണക്കാക്കുന്നത് ആത്യന്തികമായി ഞങ്ങൾ ഇത് നിർമ്മിച്ച് സംയോജിപ്പിക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് അതേ ഫലം ലഭിക്കും അതിനാൽ എന്തുകൊണ്ടാണ് ഞങ്ങൾ ഇതിൽ കൂടുതൽ സമയം ചെലവഴിക്കുന്നത് നമുക്ക് നേരിട്ട് ചെയ്യാൻ കഴിയും അതിനാൽ അതുകൊണ്ടാണ് ഇങ്ങനെ എഴുതിയത് 5 T4 tdt ഇത് ഒരു നേർരേഖയാണ് ഉത്ഭവത്തിലൂടെ കടന്നുപോകുന്ന മറ്റൊരു നേർരേഖ ചരിവ് നെഗറ്റീവ് ആണ് അങ്ങനെ ഇത് ഇന്റഗ്രേറ്റ് ചെയ്താൽ ഈ ശരാശരി മൂല്യം 0 625 വോൾട്ട് ആയിരിക്കും അതുപോലെ RMS മൂല്യവും ഇത് നോക്കുകയാണെങ്കിൽ 1T0Tv2 dt 3 23V RMS മൂല്യവും ആണ് അതിനാൽ ഇത് 3 23 വോൾട്ടായി മാറും അതിനാൽ ഈ ഉദാഹരണം മനഃപൂർവം എടുത്തതാണ് അതിനാൽ അൺസിമെട്രിക് വേവ്ഫോം എങ്ങനെ കണക്കാക്കാമെന്ന് മനസിലാക്കാൻ കഴിയും ഇത് വളരെ എളുപ്പമാണ് ഇതും അൺസിമെട്രിക് വേവ്ഫോം ആണ് അതിനാൽ ഇത് വിശദീകരിക്കുമ്പോൾ ഈ ട്രെയ്നഗുലർ തരംഗരൂപം നോക്കെണ്ടതായിരുന്നു പക്ഷെ എല്ലാം ശരിയാണ് അതിനാൽ നമുക്ക് ഇത് മനസ്സിലാക്കാൻ കഴിയുന്ന തരത്തിലാണ് ഈ ഉദാഹരണം എടുത്തത് അതിനാൽ നിങ്ങൾ ഇത് മനസ്സിലാക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇവിടെ ഇത് എന്റെ ക്ലാസ് കുറിപ്പുകൾ ആണ് അതിനാൽ കാര്യങ്ങൾ ശരിയാണോ അല്ലയോ എന്ന് കാണാൻ ഇത് പൂർണ്ണമായും സഹായിക്കും അതിനാൽ ഇതാണ് കാര്യം ഇപ്പോൾ അടുത്തതായി ഞങ്ങൾ മറ്റൊരു രസകരമായ ഉദാഹരണം എടുക്കും ഈ കാര്യത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഞങ്ങൾ ഇതിനകം ഇത്തരത്തിലുള്ള ഉദാഹരണം എടുത്തിട്ടുണ്ട് അതെങ്ങനെയാണെന്ന് കണ്ടാൽ മതി ഉദാഹരണത്തിന് ഒരു ലളിതമായ സീരീസ് സർക്യൂട്ട് അവിടെ ഒരു റെസിസ്റ്റൻസ് R ഉണ്ട് 2 അമ്മീറ്റർ ഉണ്ട് A 1 ഉം A 2 ഉം രണ്ട് അമ്മീറ്ററുകൾ ഉണ്ട് A 1 നെ മൂവിങ് കോയിൽ അമ്മീറ്റർ എന്ന് വിളിക്കുന്നു യഥാർത്ഥത്തിൽ മൂവിങ് കോയിൽ അമ്മീറ്റർ അത് DC അളക്കുന്നു DC കറന്റ് അല്ലെങ്കിൽ DC വോൾട്ടേജ് അത് മെഷർ ചെയ്യും അതിനാൽ ഇത് DC അളക്കും എ 2 ആണ് ചലിക്കുന്ന ഇരുമ്പ് അമ്മീറ്റർ ഈ മറ്റൊരു അമ്മീറ്റർ A 2 അവിടെയുണ്ട് ഇത് AC അളക്കുന്നു ഇപ്പോൾ ഈ സാഹചര്യത്തിൽ 2 ഉറവിടങ്ങൾ ഉണ്ട് ഒരു r DC വോൾട്ടേജ് സ്രോതസ്സ് സീരീസ് ആയി ബന്ധിപ്പിച്ചിരിക്കുന്നു മറ്റൊന്ന് AC വോൾട്ടേജ് ഉറവിഡവുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു ഒരു സ്വിച്ച് അടയ്ക്കുക ഇതാണ് സീരീസ് സർക്യൂട്ട് ഇവിടെ തന്നിരിക്കുന്നത് Vm 100 വോൾട്ട് ആണ് ഏറ്റവും ഉയർന്ന മൂല്യം 100 വോൾട്ടും V r DC വോൾട്ടേജ് V0 ഉം നൽകുന്നത് ഇത് 100 വോൾട്ട് DC ആണ് ഇത് 120 വോൾട്ട് DC ഉം AC പീക്ക് വാല്യുമാണ് Vm ഇവ രണ്ടും സീരീസ് ആയി ബന്ധിപ്പിച്ചിരിക്കുന്നു തുടക്കത്തിൽ ഇത്തരത്തിലുള്ള ഉദാഹരണം എടുത്തിട്ടുണ്ട് തുടർന്ന് A 1 എന്നത് ചലിക്കുന്ന കോയിൽ അമ്മീറ്ററും A 2 എന്നത് ചലിക്കുന്ന ഇരുമ്പ് അമ്മീറ്ററുമാണ് അതിനാൽ ചലിക്കുന്ന കോയിൽ ഡിസിയും ചലിക്കുന്ന ഇരുമ്പ് അളവുകളും എസിയും സർക്യൂട്ടിൽ പ്രവർത്തിക്കുന്ന വോൾട്ടേജും മൊത്തം വോൾട്ടേജ് 100 100 സിൻ ω ടി ആയിരിക്കും കാരണം ഏറ്റവും ഉയർന്ന മൂല്യം 100 വോൾട്ട് നൽകിയിരിക്കുന്നു അതായത് vt എന്നത് V0 Vm sin ω t ന് തുല്യമാണ് അതിനാൽ V0 120 ആണ് R Vm 100 വോൾട്ടിന് തുല്യമാണ് അതിനാൽ 100 120 100 sin ω t വോൾട്ട് ആയിരിക്കും ഇതാണ് നമ്മുക്ക് ഉള്ള rVm ആണ് നിലവിലെ t r 6 5 sin ω t ആയിരിക്കും കാരണം ഈ പ്രതിരോധം 20 ΩR നൽകിയിരിക്കുന്നു ഇതാണ് വോൾട്ടേജ് 120 100 sin ωT ഇതിനെ നമുക്ക് 120 120 sin ωT 20 ഇങ്ങിനെ എഴുതാം അത് 6 6sin ωT ആയിരിക്കും അത് 100 എന്ന് വിളിക്കുന്നു അതിനാൽ ഇത് 25 ആണ് അതിനാൽ 6 5 പാപം അതിനാൽ ഇത് rt 6 5 sin t ampere ന് തുല്യമാണ് ഇപ്പോൾ ശരാശരി മൂല്യം കണ്ടെത്താൻ ശ്രമിച്ചാൽ അത് T 0 മുതൽ T 6 5 sin d tdt ആകും കാരണം ഇത് t dt ω 2π ന് തുല്യമാണ് r ഉയർന്നതാണെന്ന് അറിയുക ω π 2π T ന് തുല്യമാണ് അപ്പോൾ 0 മുതൽ T 6 5sin ω tdt ഇവിടെ നമുക്ക് ω 2π Tഎന്ന് എഴുതാം ഇതിനെ നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാം അതിനാൽ ഈ ബന്ധം ω π 2πT ന് തുല്യമാണ് ഇത് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ശരാശരി ലഭിക്കുന്നത് 6 ആമ്പിയർ ആണ് അത് r dc ആണ് അതായത് ശരാശരി മൂല്യം വെറും 6 ആമ്പിയർ ആയിരിക്കും കാരണം നോക്കിയാൽ ആ 124 DC ഉണ്ട് rR 20 ohm ആണ് അതിനാൽ 120 20 എടുത്താൽ അത് 6 ആമ്പിയർ ലഭിക്കുന്നു അതിനാൽ DC 6 ആമ്പിയർ ആയിരിക്കും ഇവിടെ മൂവിങ് കോയിൽ കോയിൽ അമ്മീറ്റർ A1 നീങ്ങിക്കൊണ്ടിരിക്കുന്നു അമ്മീറ്റർ A 1 6 ആമ്പിയർ കാണിക്കും അതുപോലെ തന്നെ അമ്മീറ്ററിന്റെ A1 RMS വാല്യൂ റീഡിംഗ് ഇതാണ് ഇപ്പോൾ IRMS മൂല്യം അതായത് അമ്മീറ്റർ r റീഡിംഗ് ഇതാണ് ഈ ഭാഗം ലഭിക്കുന്നത് അമ്മീറ്റർ A 1 ൽ നിന്നുമാണ് ഇത് r DC ആണ് ഇത് A1 6 ആമ്പിയർ വായിക്കും അതിനാൽ ഈ സാഹചര്യത്തിൽ 1T0T65sin ω t2 ന് തുല്യമാണ് ഇതിനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്തു ഇന്റഗ്രേറ്റ് ചെയ്യാം ഇത് സംയോജിപ്പിക്കുകയാണെങ്കിൽ ഈ ബന്ധം ഉപയോഗിക്കുകയും ചെയ്യും ω 2π T ന് തുല്യമാണ് അതായത് ω കാണുന്നിടത്തു നമുക്ക് പകരം 2π എഴുതാം എന്നിട്ടു സുബ്സ്ടിട്യൂറ്റ് ചെയ്യാം ശേഷം sin ω t0T വരെയുള്ള സംയോജനം കണ്ടെത്തും ഈ പദം 0 ആയിത്തീരും ഇത് r sin2ω t എന്ന് വിളിക്കപ്പെടുന്നതും അതിനാൽ ഇത് 1 cos 2 ω T2 ആയിരിക്കും തുടർന്ന് സംയോജിപ്പിക്കും അതിനാൽ ഈ സംയോജനത്തിൽ നിന്ന് ഈ പദം 2 മാത്രമാണെന്ന് കണ്ടെത്തും എന്ത് വന്നാലും അത് 25 2 ആയിരിക്കും അതിനാൽ ഈ പദത്തിന്റെ സംയോജനം ഇല്ലാതാകും കൂടാതെ 36 അവിടെ ഉണ്ടാകും r T T റദ്ദാക്കപ്പെടും കൂടാതെ √36 2π 2 എന്നാൽ ω 2π T ന് തുല്യമാണ് അതിനാൽ അത് ω T 2 π ആണ് അതുപോലെ ഇവിടെയും ഈ സംയോജനത്തിൽ ഇത് ഒരു ωt 2πω ന് തുല്യമാണ് T 2π ന് തുല്യമാണ് ഇതിനെ ഇന്റഗ്രേറ്റ് ചെയുമ്പോൾ sin ω t cos ω t എന്ന് ലഭിക്കുന്നു ഈ കാര്യം ഉപയോഗിക്കുകയും ലഘൂകരിക്കുകയും വേണം അതിനാൽ ഞങ്ങൾക്ക് 36252 എന്ന് ലഭിക്കും അതായത് ഇത് ഏകദേശം 7 ആമ്പിയർ ആയിരിക്കും അതിനാൽ അത് ചലിക്കുന്ന ഇരുമ്പ് അമ്മീറ്റർ ആയ ammeterA 2 ന്റെ വായന ആയിരിക്കും ഈ അളവിനെ RMS മൂല്യം എന്ന് വിളിക്കുന്നു അതിനാൽ അമീറ്റർ A 2 എന്ന ചലിക്കുന്ന ഇരുമ്പ് അമ്മീറ്റർ RMS മൂല്യം അളക്കും ഇത് r RMS മൂല്യമാണ് അതിനാൽ ആത്യന്തികമായി ഞങ്ങൾക്ക് എന്താണ് ലഭിച്ചത് ആത്യന്തികമായി നിലവിലെ മൂല്യം 6 5 sin was t അതായത് r t അതിനാൽ ഇത് നിശ്ചിത മൂല്യമാണ് ഇതാണ് ഏറ്റവും ഉയർന്ന മൂല്യം അതിന്റെ അർത്ഥം r പീക്ക് ഫാക്ടർ r √2 ആണെന്ന് ഞങ്ങൾ കണ്ടു അതായത് കറന്റിന്റെ RMS മൂല്യം യഥാർത്ഥത്തിൽ 5 √2 ആമ്പിയർ RMS മൂല്യമായിരിക്കും ആത്യന്തികമായി ഫലപ്രദമായ മൂല്യം 6 ആയിരിക്കും അത് 62 r 5 √22 ആണ് അതിനാൽ 6236π √22 25 2 ആണ് ഈ കേസിൽ വരുന്ന ഏത് മൂല്യവും √of 62 ൽ താഴെയായിരിക്കും അതിനാൽ ഈഇന്റഗ്രേഷനിൽ നിന്ന് RMS മൂല്യം നേടുന്നത് ഇതാണ് ഇപ്പോൾ ഞാൻ അത് വ്യക്തമാക്കാം അതിനാൽ ഇത് r ammeter r ആണ് ammeter A 2 ന്റെ റീഡിംഗ് ഇത് ഏകദേശം 7 ആമ്പിയറാണ് അടുത്തത് ചലിക്കുന്ന ഇരുമ്പ് കോയിൽ ഉപകരണത്തെക്കുറിച്ച് നമ്മൾ അത് ഓർക്കണം ചലിക്കുന്ന ഇരുമ്പ് ഹോട്ട് വയർ ഇലക്ട്രോ ഡൈനാമിക് ഇൻഡക്ഷൻ എന്നിവയുടെ ശരാശരി മൂല്യമാണിത് ഈ തരത്തിലുള്ള ഉപകരണങ്ങൾ സിഗ്നലിന്റെ RMS മൂല്യം വായിക്കുന്നു ഒരു കാര്യം ഓർത്തിരിക്കേണ്ടത് പ്രധാനമാണ് 220 വോൾട്ടിന്റെ എസി വിതരണത്തെ പരാമർശിക്കുമ്പോൾ അത് അർത്ഥമാക്കുന്നത് RMS മൂല്യമാണ് പരമാവധി മൂല്യം 220 √2 ആണ് അതിനാൽ 310 വോൾട്ട് എന്ന് പറയപ്പെടുന്നു അതിനാൽ ഡിസി 220 വോൾട്ടുകളുടെ കാര്യത്തിൽ ഇത് 220 വോൾട്ട് മാത്രമാണ് ഇത് ഡിസി 220 ആണെങ്കിൽ ഡിസി 220 എസി 220 ആണെങ്കിൽ അത് RMS മൂല്യം എന്നാണ് √2 310 വോൾട്ട് ഗുണിക്കണം അതായത് നിർദ്ദിഷ്ട വോൾട്ടേജിനുള്ള AC യുടെ ഷോക്ക് ലെവൽ DC വോൾട്ടേജിനെക്കാൾ കൂടുതലാണ് അതായത് AC വോൾട്ടേജിൽ പീക്ക് വാല്യൂ ഷോക്കും DC വോൾട്ടേജിൽ 220 ഉം ലഭിക്കും ഈ DC വോൾട്ടേജിൽ ഷോക്ക് 220 വോൾട്ട് ആയിരിക്കും എന്നാൽ AC വിതരണത്തിന് മാത്രം 220 വോൾട്ട് RMS അതായത് ആർ ഷോക്ക് ലെവൽ 310 വോൾട്ട് ആയിരിക്കും അതിനാൽ AC യിലെ ഷോക്ക് DC യെക്കാൾ കൂടുതലായിരിക്കും അതിനർത്ഥം ഇതാണ് തരംഗരൂപം ഇതാണ് r vt ഇത് r Vm sin ω t എന്ന് വിളിക്കപ്പെടുന്നതിന് തുല്യമാണ് ഇതാണ് ആ ആർ 100 sin ω t എന്ന് വിളിക്കുന്നത് ഈ വോൾട്ട് 120 വോൾട്ട് DC ആണ് ഇത് r Vm 100 sin ω t ഇവിടെയെ രണ്ടും കൂട്ടിയാൽ ഇത് vt ആയിരിക്കും ഇതിനർത്ഥം ഈ പ്ലോട്ട് 120 100 sin ω t ഇതാണ് ഇതാണ് ഡിസി മാർഗം ഇതാണ് സ്ഥിരമായ ലൈൻ ഇതാണ് 120 വോൾട്ട് പരാമർശിച്ചിരിക്കുന്നു അതിനാൽ ഇത് അതിന്റെ ഫലമാണ്